സോഴ്സ് ഫീഡ്ബാക്ക് ബയസ്സിങ് ചെയ്ത ഒരു ട്രാൻസിസ്റ്ററിൽ സ്ഥിരമായ ബയസ് കറന്റ് സ്ഥാപിക്കുന്നതിനുള്ള മറ്റൊരു രീതി നമ്മൾ ചർച്ചചെയ്തു നമ്മൾ ഒരു കറന്റ് സോഴ്സ് MOS ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ തരത്തിലുള്ള ബയാസ്സിങ് ഉൾക്കൊള്ളുന്ന ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഉണ്ടാക്കുക എന്നതാണ് അതിനാൽ നമ്മുടെ ബയാസ്സിങ് ചിത്രം ഇതുപോലെ ആകുന്നു ഗേറ്റ് ഒരു സ്ഥിരമായ വോൾട്ടേജ് VG0 ൽ ബയാസ് ചെയ്തിരിക്കുന്നു കറന്റ് സോഴ്സ് I0 സോഴ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഡ്രെയിൻ VDD യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കാരണം ബയാസ് ചിത്രത്തിൽ ഡ്രെയിനിന് യാതൊരു പങ്കുമില്ല കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇത് പോലെ കാണപ്പെടുന്നു ഗേറ്റിനും സോഴ്സ്സിനും ഇടയിൽ സിഗ്നൽ പ്രയോഗിക്കുന്നു ഒപ്പം ഔട്ട്പുട്ട് ഡ്രെയിനിനും സോഴ്സ്സിനും ഇടയിൽ എടുക്കുന്നു ഇതാണ് ഡ്രെയിൻ ഇതാണ് സോഴ്സ് ഇതാണ് ഗേറ്റ് ഇൻപുട്ടിനായുള്ള നൊട്ടേഷൻ മാറ്റാൻ എന്നെ അനുവദിക്കുക ഇൻപുട്ട് സിഗ്നലിനായി ഈ Vi നെ വിളിക്കട്ടെ ഔട്ട്പുട്ട് ഇവിടെ ദൃശ്യമാകും ഈ ആംപ്ലിഫയർ gmRL ന്റെ ഗൈൻ നൽകുന്നു മുമ്പത്തെ അനുഭവത്തിൽ നിന്ന് നമ്മൾക്ക് ചില അധിക ഘടകങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് നമ്മൾക്കറിയാം ഉദാഹരണത്തിന് അത് ഇവിടെ നിന്ന് ഗ്രൌണ്ടിലേക്കോ അല്ലെങ്കിൽ ഗേറ്റിനും ഡ്രെയിനിനുമിടയിൽ മറ്റെവിടെയെങ്കിലുമോ ആകാം അതിനാൽ ഈ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം അത് നമ്മൾ കാണും ഇപ്പോൾ ചോദ്യം ട്രാൻസിസ്റ്ററിനെ നമ്മൾ എങ്ങനെ ബയസ് ചെയ്യും സിഗ്നൽ ചിത്രത്തിനായി ഇത് എങ്ങനെയാക്കുകയും ചെയ്യും എന്നതാണ് അതിനാൽ അതാണ് നമ്മൾക്ക് ചെയ്യേണ്ടത് അതിനാൽ നമ്മൾ ഇത് ഓരോ ഘട്ടമായി എടുക്കും ഇവിടെ നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ചു അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ചു ഒരൊറ്റ വിതരണം ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഞങ്ങൾ അത് എങ്ങനെ ചെയ്യും ആദ്യ ഭാഗം വളരെ എളുപ്പമാണ് ഈ പ്രധാന സപ്ലൈ വോൾട്ടേജ് VDD യിൽ നിന്ന് ഗേറ്റ് വോൾട്ടേജ് നേടാൻ ഞാൻ ചെയ്യേണ്ടത് റെസിസ്റ്റീവ് ഡിവൈഡർ R1R2 ഉപയോഗിക്കുക മാത്രമാണ് ഇതാണ് സപ്ലൈ വോൾട്ടേജ് VDD ഗേറ്റ് വോൾട്ടേജ് VDD R2R1 R2 ആയിരിക്കും കൂടാതെ R1R2 എന്നിവയുടെ മൂല്യങ്ങൾ തിരഞ്ഞെടുത്ത് നമുക്ക് ആവശ്യമുള്ളതെന്തും നേടാൻ കഴിയും സിഗ്നൽ സോഴ്സ് ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിൽ പ്രയോഗിക്കണം നമ്മൾ അത് എങ്ങനെ ചെയ്യും നമ്മൾ ഇപ്പോൾ ഇത് പല തവണ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് സിഗ്നൽ ചേർക്കുന്നതിനായി ഈ ഭാഗം ബയസ് സ്ഥാപിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് Vi Rs ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ C1 കണക്റ്റുചെയ്യുക ഇപ്പോൾ നമുക്ക് ലോഡ് കണക്റ്റുചെയ്യാൻ കഴിയണം കൂടാതെ ഡ്രെയിൻ സപ്ലൈ വോൾട്ടേജിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലോഡ് ഡ്രെയിനിലേക്ക് എസി കപ്ലിംഗ് വഴി കണക്റ്റുചെയ്യാനാകുമെന്ന് നമ്മൾക്കറിയാം അങ്ങനെ ഡിസി മൂല്യം തടയും ഇവിടെ സിഗ്നൽ മാത്രമേ ദൃശ്യമാകൂ പക്ഷേ ഇത് നേരിട്ട് VDD യുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെയിൻ നേരിട്ട് VDD യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു VDD എന്നത് ഇൻക്രിമെന്റൽ ചിത്രത്തിലെ ഗ്രൌണ്ട് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇത് നേരിട്ട് ഗ്രൌണ്ട് മായി ബന്ധിപ്പിക്കുമെന്നാണ് ഇതിനർത്ഥം അതിനാൽ ഇത് ഗ്രൌണ്ട് മായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സിഗ്നൽ വോൾട്ടേജ് പൂജ്യമായിരിക്കും അതിനാൽ ഇത് അനുവദിക്കാൻ കഴിയില്ല ആംപ്ലിഫയറിൽ നിന്ന് കുറച്ച് സിഗ്നൽ പുറത്തുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു ബയാസ് റെസിസ്റ്റർ RD വഴി ഡ്രെയിൻ VDD യുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇത് എവിടെയെങ്കിലും കണക്റ്റുചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ I0 ന് ഒഴുകാൻ കുറച്ച് പാതയുണ്ട് അത് VDD യിലേക്ക് പോകണം പക്ഷേ ഇത് നേരിട്ട് VDD യിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയില്ല കാരണം അത്തരം സന്ദർഭങ്ങളിൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഗ്രൌണ്ട്ലേക്ക് ചെയ്യുന്നതിന് തുല്യമാണ് അടിസ്ഥാനപരമായി നമ്മൾ നേരിട്ട് VDD യിലേക്ക് കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രെയിനിൽ നിന്ന് ഗ്രൌണ്ട്ലേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ഇവിടെ ഉണ്ടാകും അതിനാൽ നേട്ടം പൂജ്യമായിരിക്കും അത് gm ഗുണം പൂജ്യം റെസിസ്റ്റൻസ് ആയിരിക്കും അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ റെസിസ്റ്റൻസ് RD യിലൂടെ ബന്ധിപ്പിക്കുക എന്നതാണ് എന്നിട്ട് ഇവ രണ്ടും ചെയ്താൽ സംഭവിക്കുന്നത് ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഡ്രെയിനിൽ നിന്ന് ഗ്രൌണ്ട്ലേക്ക് ഒരു റെസിസ്റ്റൻസ് RD ഉണ്ടാകും കൂടാതെ ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഗേറ്റിൽ നിന്ന് ഗ്രൌണ്ട്ലേക്ക് R1 || R2 ഉണ്ടാകും ഇത് നേരത്തെ കണ്ട ചില കേസുകൾക്ക് സമാനമാണ് സ്ഥിരമായ വോൾട്ടേജ് ബയാസ് ഉള്ള കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇതിനു സമാനമാണ് ഇപ്പോൾ ഒരു കാര്യം ഉപേക്ഷിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതും അതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് MOS ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ് സ്മോൾ സിഗ്നൽ ചിത്രത്തിൽ ഗ്രൌണ്ട്മായി ബന്ധിപ്പിക്കണം അതുകൊണ്ടാണ് ഇത് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ ആയതിനാൽ ഗേറ്റിനും സോഴ്സ്സിനും ഇടയിൽ ഇൻപുട്ട് പ്രയോഗിക്കുന്നത് ഔട്ട്പുട്ട് ഡ്രെയിനിനും സോഴ്സ്സിനും ഇടയിൽ എടുക്കുന്നു നമ്മുടെ യഥാർത്ഥ സർക്യൂട്ടിലെ MOS ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ് ടെർമിനൽ നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല ഇടതുവശത്തുള്ള ഈ ചിത്രത്തിൽ നിന്നും നാം ഇൻക്രിമെൻറ് ചിത്രം വരച്ചാൽ I0 ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറും കൂടാതെ സോഴ്സ് എവിടെയും ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് അത് വിശകലനം ചെയ്യാനും കാണാനും കഴിയും മാത്രമല്ല ഗെയിൻ വീണ്ടും പൂജ്യമായിരിക്കും അതിനാൽ ഇത് സിഗ്നലുകൾക്കായി ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് പതിവുപോലെ എല്ലായ്പ്പോഴും നമ്മൾ സിഗ്നൽ ഫ്രീക്വൻസിക്ക് ഒരു നിശ്ചിത മിനിമം ഉണ്ടെന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പൂജ്യമല്ല അതിനാലാണ് ഒരു കപ്പാസിറ്ററിലൂടെ ഇൻപുട്ട് കപ്പിൾ ചെയ്യാൻ കഴിയുന്നതും കപ്പാസിറ്റർ വഴി ഔട്ട്പുട്ട് എടുക്കാനും മറ്റും നമുക്ക് കഴിയുന്നത് സിഗ്നലുകൾക്കായി സോഴ്സ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കുന്നതിന് സമാനമായ ആശയം നമുക്ക് ഉപയോഗിക്കാം സോഴ്സ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ ട്രാൻസിസ്റ്ററിന്റെ സോഴ്സിലേക്ക് പൂജ്യം സിഗ്നൽ പ്രയോഗിക്കുന്നതായി നിങ്ങൾക്ക് കരുതാം അതിനാൽ എനിക്ക് സോഴ്സ് പൂജ്യമാണെന്നും MOS ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ് ഇതുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ടെന്നും നമുക്ക് പറയാം അടിസ്ഥാനപരമായി സിഗ്നൽ ഫ്രീക്വൻസിയിൽ ഇത് ഗ്രൌണ്ടിലേക്ക് ഷോർട് ചെയ്യപ്പെടണം അതിനാൽ അതിനർത്ഥം ഒരു കപ്പാസിറ്റർ വഴി നമ്മൾ അതിനെ ഗ്രൌണ്ടിലേക്കോ പൂജ്യo വോൾട്ടേജ് സോഴ്സിലേക്കോ കപ്പിൾ ചെയ്യണം അതിനാൽ നമ്മൾ അത് ചെയ്യും നമ്മൾ അതിനെ ഒരു കപ്പാസിറ്റർ വഴി ഗ്രൌണ്ടിലേക്ക് ബന്ധിപ്പിക്കും ഞാൻ അതിനെ C3 എന്ന് വിളിക്കട്ടെ മുമ്പത്തെപ്പോലെ കപ്പാസിറ്റർ വേണ്ടത്ര വലുതാണെങ്കിൽ സംഭവിക്കുന്നത് അത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കും സോഴ്സ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതുപോലെയാണ് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പെരുമാറാൻ C3 എത്ര വേണമെന്ന് നമ്മൾ നോക്കണം അതിനാൽ നമ്മൾ ചെയ്തത് ഇനിപ്പറയുന്നവയായിരുന്നു എസി കപ്ലിംഗിന്റെ തത്വങ്ങളും ഇൻപുട്ടും ഔട്ട്പുട്ടും നിങ്ങൾക്ക് ഇപ്പോൾ പരിചിതമായതിനാൽ ഞാൻ ഇത് വളരെ വേഗത്തിൽ ചെയ്യുന്നു ഇവിടെ പ്രത്യേകത ഈ ബയസിംഗ് സ്കീം ഉപയോഗിച്ചതായിരുന്നു MOS ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ് ടെർമിനൽ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല ഡ്രെയിൻ ഫീഡ്ബാക്ക് കേസിൽ നമ്മൾ ആരംഭിച്ച രീതി ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരുന്നു പക്ഷേ ഇവിടെ അത് അങ്ങനെയല്ല അതിനാൽ ഒരു കപ്പാസിറ്റർ C3 വഴി സിഗ്നൽ ഫ്രീക്വൻസിയിൽ അതിനെ ഗ്രൌണ്ടിലേക്ക് ബന്ധിപ്പിക്കണം അതിനാൽ ഈ സർക്യൂട്ട് ഇപ്പോൾ ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ മറ്റൊരു ടോപ്പോളജിയാണ് ഇത് സോഴ്സ് ഫീഡ്ബാക്ക് ബയസ് ഉപയോഗിക്കുന്നു ഞാൻ ഇവിടെ സർക്യൂട്ട് വീണ്ടും വരയ്ക്കും എനിക്ക് സിഗ്നൽ സോഴ്സ് ഉണ്ട് അത് എസി ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലേക്ക് കപ്പിൾ ചെയ്തിരിക്കുന്നു സപ്ലൈ വോൾട്ടേജ് VDD യിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു റെസിസ്റ്റീവ് ഡിവൈഡർ ഉപയോഗിച്ച് ഗേറ്റ് ബയസ് ചെയ്തിരിക്കുന്നു ഒരു സപ്ലൈ വോൾട്ടേജ് VDD യിൽ നിന്ന് പ്രവർത്തിക്കുന്നു കറന്റ് സോഴ്സുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ സോഴ്സ് ബയസ് ചെയ്തിരിക്കുന്നു ഒരു റെസിസ്റ്റർ RD വഴി VDD യിലേക്ക് ഡ്രെയിൻ കറന്റിനുള്ള ഒരു പാത സൃഷ്ടിക്കപ്പെടുന്നു അവസാനമായി ഈ ട്രാൻസിസ്റ്റർ M1 ന്റെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് നമ്മൾ വിലയിരുത്തുകയും അത് സാച്ചുറേഷൻ മേഖലയിലാണെന്ന് ഉറപ്പാക്കുകയും വേണം രണ്ടാമത്തെ കപ്പാസിറ്റർ C2 വഴി ലോഡ് കൂട്ടിച്ചേർക്കപ്പെടും ഒടുവിൽ ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ് ഒരു കപ്പാസിറ്റർ C3 ഉപയോഗിച്ച് ഗ്രൌണ്ടുമായി ഷോർട്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇതിന്റെ സ്മോൾ സിഗ്നൽ ഇൻക്രെമെന്റൽ ചിത്രം വരച്ചാൽ നമുക്ക് ഇൻപുട്ട് ഉറവിടമായ Vi Rs ഉണ്ടാകും ഇത് കപ്പാസിറ്റർ C1 വഴി MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിൽ നിന്ന് നമുക്ക് ഈ രണ്ട് റെസിസ്റ്ററുകളായ R1 R2 എന്നിവയുണ്ട് ഇൻക്രെമെന്റൽ ചിത്രത്തിൽ ഇവിടെ വിതരണ വോൾട്ടേജും ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു കാരണം ഈ വിതരണ വോൾട്ടേജിന് ഇൻക്രിമെന്റുകളൊന്നുമില്ല അതിനാൽ നമുക്ക് ഈ സ്ഥാനത്ത് നിന്ന് ഗ്രൌണ്ടിലേക്ക് R1 R2 എന്നിവ ഉണ്ടാകും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ R1 || R2 പിന്നെ നമുക്ക് MOS ട്രാൻസിസ്റ്ററിന്റെ നിയന്ത്രിത സോഴ്സ് ഉണ്ട് ഇതാണ് VGS ആത് gmVGS ഇതാണ് ഡ്രെയിൻ ഇതാണ് സോഴ്സ് ടെർമിനൽ സോഴ്സ് ടെർമിനലിൽ നിന്ന് ഗ്രൌണ്ടിലേക്ക് നമുക്ക് കപ്പാസിറ്റർ C3 ഉണ്ട് ഈ കറന്റ് സോഴ്സ് ഒരു ഓപ്പൺ സർക്യൂട്ടാണ് കാരണം ഇത് ഒരു നിശ്ചിത കറന്റ് സോഴ്സ് ആണ് ഡ്രെയിനിൽ നിന്ന് ഗ്രൌണ്ടിലേക്ക് നമ്മൾക്ക് RD യും കപ്പാസിറ്റർ C2 ഉം ലോഡ് റെസിസ്റ്റർ RL ഉം ഉണ്ട് അതിനാൽ ഇതാണ് സ്മോൾ സിഗ്നൽ ഇൻക്രെമെന്റൽ ചിത്രം കൂടാതെ C1 C2 C3 എന്നിവ സിഗ്നൽ ആവൃത്തികളിൽ ഷോർട്ട് ആണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്